സെൽ കൾച്ചർ ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നാലാമത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലാണ് അപ്പോൾ അവസാനത്തെ പ്രഭാഷണത്തിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അവിടെ രണ്ട് വെല്ലുവിളികളാണ് ഉള്ളത് നമ്മളിപ്പോൾ എട്ടാമത്തെ ആഴ്ചയിലെ നാലാമത്തെ ലെക്ചറിൽ ആണ് അപ്പോൾ ഇതാണ് രണ്ട് വെല്ലുവിളികൾ മൈക്രോ കാന്റിലിവർ അസംബ്ലിയിൽ ഈ സിസ്റ്റം എങ്ങനെ സംയോജിപ്പിക്കും അടുത്ത വെല്ലുവിളി ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ കുറിച്ച് പഠിക്കാനായി പേശികോശങ്ങളെയും നാഡീകോശങ്ങളെയും ഒരുമിച്ച് എങ്ങനെ വളർത്തും എന്നതായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ കൂടാതെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് അതായത് സിറം ഉപയോഗിക്കാത്ത ഒരു ഡിഫൈൻഡ് മീഡിയം നിങ്ങൾക്ക് ആവശ്യം ആയിട്ടുണ്ട് അത് രണ്ടുതരം കോശങ്ങളുടെയും വളർച്ചയെ സഹായിക്കുന്ന പൊതുവായ മീഡിയവും ആകണം അത് വളരെ വെല്ലുവിളി ഉള്ളതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കണം പേശി കോശങ്ങളെ ഇൻവിട്രോ സിസ്റ്റത്തിൽ വളർത്തിയെടുക്കുന്നത് തന്നെ വളരെ വിഷമം പിടിച്ച ഒന്നാണ് അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളെയും എങ്ങനെ തരണം ചെയ്യും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ പേശികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നു ണ്ടായിരിക്കും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ കാര്യം ഈ ചിത്രത്തിലുണ്ട് അപ്പോൾ ഇവയാണ് വിഭജിക്കുന്ന പേശി കോശങ്ങൾ വിഭജന ശേഷം അവ ഇത്തരത്തിൽ വിന്യസിക്കുന്നു അപ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞിരുന്ന പോലെ ഈ ഘട്ടത്തിലാണ് ഡിഫറെൻസിയേഷൻ നടക്കുന്നത് അപ്പോൾ ഇതാണ് ഡിഷിൽ നിങ്ങൾ പ്ലേറ്റ് ചെയ്യാൻ പോകുന്ന പേശി കോശങ്ങൾ പ്ലേറ്റിംഗ് പ്രാരംഭത്തിൽ ഇതാണ് നിങ്ങളുടെ പേശി കോശങ്ങൾ പ്ലേറ്റിംഗ് ശേഷം നിങ്ങൾ മീഡിയം ഉപയോഗിക്കുന്നുണ്ട് ആ മീഡിയം കോശങ്ങളുടെ വിഭജനത്തെ മൂന്നു നാല് ദിവസം വരെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ അവയെ വിഭജിക്കാൻ അനുവദിക്കുകയാണ് വിഭജനശേഷം അവ ഇത്തരത്തിൽ വിന്യസിക്കുന്നു അവ നീളമേറിയവ ആവുകയും ഇത്തരത്തിൽ വിന്യസിക്കുകയും ചെയ്യുന്നു താമസിയാതെ അവർക്ക് അവരുടെ വ്യക്തിഗത ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും അവ ഇതുപോലുള്ള ഒരു ട്യൂബായി മാറുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഇതാണ് വിഭജന ഘട്ടം ഇതാണ് ഡിഫറെൻസിയേഷൻ ഘട്ടം അപ്പോൾ വിഭജനം സാധ്യമാകണമെങ്കിൽ വിഭജനത്തെ അനുവദിക്കുന്ന തന്മാത്രകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തന്മാത്രകളെ നിക്ഷേപിക്കുകയാണ് പിന്നീട് നിങ്ങൾ അവയെ പിൻവലിക്കേണ്ടതുണ്ട് ഇവിടെ മൈനസ് ചിഹ്നം കാണിക്കുന്നത് ഡി തന്മാത്രകളെ പിൻവലിക്കുന്നതാണ് പിന്നീട് ഈ കോശങ്ങളെ ഡി ഡബിൾ പ്രൈം അതായത് ഡിഫറെൻസിയേഷൻ തന്മാത്രകളുടെ സാന്നിധ്യത്തിൽ വളരാൻ അനുവദിക്കണം ഇത് നിങ്ങൾ സിസ്റ്റത്തിൽ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ യാത്ര കൂടുതൽ സങ്കീർണമാകുകയാണ് അടുത്ത ഘടകം ഒരിക്കലും വിഭജിക്കാനാകാത്ത നാഡീകോശങ്ങൾ ആണ് ഈ കേസിൽ ഇത് വിഭജിക്കാനാകാത്ത മോട്ടോർ ന്യൂറോണുകൾ ആണ് ഇപ്പോൾ നിങ്ങൾ അടിസ്ഥാന ഫൈബ്രോബ്ലാസ്റ്റ് വളർച്ചാ ഘടകങ്ങളായ ഇത്തരത്തിലുള്ള തന്മാത്രകൾ ഉപയോഗിക്കുമ്പോൾ ഈ മീഡിയ പൂർണ്ണമായും ഒരു പൊതു മീഡിയമായിരിക്കണം സിറം ഉപയോഗിക്കാത്ത ഒരു പൊതു മീഡിയം ആയിരിക്കണം ഇത് ഈ പ്രധാനപ്പെട്ട നേട്ടത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു എന്നാൽ ഞങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പേശി എടുത്തു ആദ്യഘട്ടത്തിൽ പേശികൾ ഫൈബ്രോബ്ലാസ്റ്റുകളാൽ മലിന മായിരിക്കും ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പേശികളെ അങ്ങനെതന്നെ ഇരിക്കാൻ അനുവദിച്ചു അപ്പോൾ ഫൈബ്രോബ്ലാസ്റ്റുകൾ താഴെ അടിയുകയും പേശികോശങ്ങൾ മുകളിൽ ആകുകയും ചെയ്യും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഈ സസ്പെൻഷൻ പുറത്തെടുക്കണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പരിധിവരെ ശുദ്ധമായ മയോസൈറ്റുകളുണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്യും ഇനി നിങ്ങൾ ഒരു ഡിഷിൽ ഈ മയോ സൈറ്റുകളെ പ്ലേറ്റ് ചെയ്യണം ഒരിക്കൽ മയോസൈറ്റുകളെ പ്ലേറ്റ് ചെയ്തുകഴിഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞ സാന്ദ്രതയിൽ അടിസ്ഥാന ഫൈബ്രോബ്ലാസ്റ്റ് വളർച്ച ഘടകങ്ങൾ ചേർത്തുകൊടുക്കണം എങ്കിൽ മാത്രമേ കോശങ്ങൾ മതിയായ സംഖ്യയിൽ വിഭജിക്കുകയുള്ളൂ എന്നാൽ അതിന് അതിൻറെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വിട്ടുവീഴ്ചയാണ് അപ്പോൾ നിങ്ങൾ കോശങ്ങളെ പ്ലേറ്റ് ചെയ്തു അതിനുശേഷം അതിനുമുകളിൽ മീഡിയം ഒഴിച്ചു അപ്പോൾ നിങ്ങളുടെ ഡിഷിൽ ഇത്തരത്തിൽ ഒന്നായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ നിങ്ങളുടെ പക്കൽ നിങ്ങൾ കോശങ്ങളെ വളർത്താൻ പോകുന്ന സെൽ കൾച്ചർ ഡിഷ് ഉണ്ട് നിങ്ങളുടെ വശം ഈ പേശി കോശങ്ങൾ ഉണ്ട് ഫൈബ്രോബ്ലാസ്റ്റുകൾ എങ്ങനെ നീക്കംചെയ്യുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം ഫൈബ്രോബ്ലാസ്റ്റുകൾ വേഗത്തിൽ താഴെ അടിയുന്നത് കാണാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് പേശി കോശങ്ങളാണ് ഇനി മീഡിയത്തിലേക്ക് നിങ്ങൾ എഫ് ജി എഫ് ചേർത്തുകൊടുക്കണം ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റ് ഘടകങ്ങളുമുണ്ട് ഞാൻ അവയെക്കുറിച്ചുള്ള പേപ്പറുകൾ നിങ്ങൾക്ക് നൽകാം ഉപയോഗത്തിലുള്ള അത്തരം മറ്റു ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം ഇനി ഇവയെ ഒന്നു മുതൽ രണ്ടു മണിക്കൂർ വരെ ഈ ഡിഷിൽ ഇരിക്കാൻ അനുവദിക്കണം ഈ സമയത്താണ് വ്യത്യസ്തങ്ങളായ ഈ വളർച്ച ഘടകങ്ങൾ മിക്കവാറും ഈ കോശങ്ങളുടെ ഉപരിതലത്തിൽ ബന്ധിക്കാൻ പോകുന്നത് അങ്ങിനെ അവർ ചെയ്യേണ്ട പ്രവർത്തനത്തിന് അവർ തുടക്കം കുറിക്കും ഈ ചുവപ്പു നിറത്തിൽ കാണിച്ചിട്ടുള്ളത് ആണ് ഉപയോഗിച്ചിട്ടുള്ള വിവിധതരത്തിലുള്ള എഫ് ജി എഫും മറ്റ് വളർച്ചാ ഘടകങ്ങളും അതോടൊപ്പം തന്നെ ഈ കോശങ്ങൾ അവരുടേതായ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സ്രവിക്കാൻ തുടങ്ങും ഇനി ഒന്നു മുതൽ രണ്ട് മണിക്കൂറിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ മീഡിയത്തിൻറെ ഒരു ചെറിയ ഭാഗം വളരെ ചെറിയ ഭാഗം നീക്കംചെയ്യുന്നു മുകൾഭാഗം നേരിയതോതിൽ മൂടുവാൻ മാത്രം മീഡിയം ബാക്കി നിർത്തിയാൽ മതി ഇനി നിങ്ങൾ നിങ്ങളുടെ മോട്ടോർ ന്യൂറോണുകളുടെ ചേർത്തുകൊടുക്കണം അവ ഏകദേശം ഇതുപോലെ ഇരിക്കും ഈ മോട്ടോർ ന്യൂറോണുകൾ മിക്കവാറും E14 എലി ഭ്രൂണത്തിൽ നിന്നാണ് വരുന്നത് സുഷുമ്നയുടെ വെൻട്രൽ ഹോണിൽ നിന്നാണ് അവ ലഭിക്കുന്നത് നേരെമറിച്ച് വളർത്തിയെടുക്കാനുള്ള അസ്ഥിപേശി E 18 റാറ്റ് ഫീറ്റ്സിൽ നിന്നാണ് എടുക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് മയോ ട്യൂബുകൾ ലഭ്യമാകുന്നത് അപ്പോൾ 1 മുതൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ മോട്ടോർ ന്യൂറോണുകൾ ചേർത്തു കൊടുക്കാം തീർച്ചയായും നിങ്ങൾ എടുത്തുമാറ്റിയ മീഡിയം ഇവിടെ തിരിച്ച് ചേർക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കണം കോശങ്ങൾ വളരെ പ്രധാനപ്പെട്ട പല വളർച്ചാ ഘടകങ്ങളും പുറപ്പെടുവിക്കുന്നത് ഈ ആദ്യഘട്ടങ്ങളിൽ ആണ് വളരെ അത്യാവശ്യമായ ഒരുപാട് വളർച്ചാ ഘടകങ്ങൾ ഈ സമയത്ത് അവ പുറപ്പെടുവിക്കും വളരെ വളരെ ആവശ്യമായവ മീഡിയം തിരിച്ചു നൽകുമ്പോൾ അടിസ്ഥാന എഫ് ജി എഫ് അടങ്ങിയിട്ടില്ലാത്ത പുതിയ മീഡിയം ആണ് ചേർക്കേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഈ പ്രക്രിയയിലൂടെ അടിസ്ഥാന എഫ് ജി എഫ് ന്റെ സ്വാധീനത്തെ നേർപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത് ഈ കൾച്ചർ 6 മുതൽ 10 ദിവസം വരെ അതുമല്ലെങ്കിൽ കുറച്ചുകൂടി നീണ്ടസമയത്തേക്ക് ഒരു 15 ദിവസം വരെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഇത്തരത്തിൽ അതിശയകരമായ ന്യൂറോ മസ്കുലർ ജംഗ്ഷനുകൾ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ അതിമനോഹരമായ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് രണ്ട് ടെസ്റ്റുകൾ ചെയ്തു നോക്കാം ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് പറയാം മോട്ടോർ ന്യൂറോൺ അവിടെ കാണാം ആ മോട്ടോർ ന്യൂറോണുകൾ ഒരു ഇലക്ട്രോഡ് വെച്ച് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പേശികളിൽ സങ്കോചം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് ഈ വൺ അഥവാ ഇലക്ട്രോഡ് 1 ആണ് ഇത് E 1 നെ പ്രതിനിധാനം ചെയ്യുന്നു ഇത് E8 നെയും അപ്പോൾ ഇവിടെ നിങ്ങൾ E 1 ൽ ഉത്തേജനം നല്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാനാവും അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്രവർത്തനം സൃഷ്ടിക്കപ്പെടുന്നതായി പിന്നീട് ഒരു ചെറിയ ഇടവേളക്ക് ശേഷം ഈ പേശികളിൽ മറ്റൊരു ഇലക്ട്രിക്കൽ പ്രവർത്തനം നടക്കുന്നതായും നിങ്ങൾക്ക് കാണാം അതിനോടൊപ്പം തന്നെ ആ മേഖലയിൽ ഒരു യാന്ത്രിക പ്രവർത്തനം അല്ലെങ്കിൽ സങ്കോചം നടക്കുന്നതായും കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ ആദ്യത്തെ ഇംപൾസ് ആണ് ഇത് ഒരു ഉത്തേജനം ആണ് ഇവിടെ ഒരു ഉത്തേജനം ആവശ്യമായിരുന്നു അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇംപൾസ് ഇതാണ് ന്യൂറോണിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനം തുടർന്ന് പേശിയുടെ ഇലക്ട്രിക്കൽ പ്രവർത്തനം അതിനോടൊപ്പം തന്നെ പേശികളിൽ യാന്ത്രിക പ്രവർത്തനം അഥവാ മെക്കാനിക്കൽ പ്രവർത്തനവും സംഭവിക്കുന്നു നിങ്ങൾക്ക് അത് ശരിക്കും കാണാൻ സാധിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് ഇത് വിലയിരുത്താൻ മറ്റൊരു വഴിയുണ്ട് നിർദ്ദിഷ്ട പ്രോട്ടീൻ പ്രോബുകൾ അല്ലെങ്കിൽ ആന്റിബോഡി പ്രോബുകൾ അതുമല്ലെങ്കിൽ ആന്റിബോഡികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻ എം ജെ അഥവാ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ മാപ് ചെയ്യാൻ കഴിയും അസറ്റൈൽ കോളിൻ റിസപ്റ്ററിനെ പ്രോബ് ചെയ്യാനായി ആൻറിബോഡികൾ ഉപയോഗിക്കാനാകും കാരണം പേശികളിൽ ധാരാളമായി അസറ്റൈൽ കോളിൻ റിസെപ്റ്ററുകൾ കാണാം നിങ്ങൾക്ക് അവയെ ബംഗാരോട്ടോക്സിൻ ഉപയോഗിച്ചും കണ്ടെത്താം ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലെ സംക്രമണത്തെ തടയുവാൻ കഴിവുള്ള ഒരു വിഷവസ്തുവാണ് ബംഗാരോട്ടോക്സിൻ നിങ്ങൾക്ക് സമാന്തരമായി ഒരു കാര്യം കൂടി ചെയ്യാൻ കഴിയും ഇവിടെ ഒരു ഉത്തേജനം നൽകിയിട്ടുണ്ടെന്ന് കരുതുക കുറാറെ എന്ന ഒരു ഡ്രഗ് ഉണ്ട് ആമസോൺ ബേസിനിലെ ആദിവാസികൾ മാനുകളെയും മറ്റ് മൃഗങ്ങളെയും വേട്ടയാടാൻ ഉപയോഗിക്കുന്നത് എന്താണ് അത് ചെയ്യുക അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറാറെ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവ ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ തളർത്തിക്കളയും അതുകൊണ്ട് കുറാറെ ചേർത്തതിനുശേഷം ഉത്തേജനം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തേജനം നൽകാം പക്ഷേ ഇവിടെ ഒരു സിഗ്നലും കാണാൻ കഴിയില്ല ഇവിടെ സിഗ്നൽ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല കുറാറെയുടെ ഫലമാണിത് കുറാറെയ്ക്ക് വളരെ സവിശേഷമായ രീതിയിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ തടസ്സപ്പെടുത്താൻ സാധിക്കും എന്നാൽ ഇത് ഒരു റിവേഴ്സ്സിബിൾ ബ്ലോക്കർ ആണ് അതായത് കുറച്ചു സമയത്തിന് ശേഷം കുറാറെ സൃഷ്ടിച്ച തടസ്സം ഇല്ലാതാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഈ സജ്ജീകരണത്തിൽ സ്വമേധയ ഇത്തരമൊരു സങ്കോചം കാണുകയാണെങ്കിൽ കുറാറെ ചേർക്കുന്നത് വഴി ആ സങ്കോചം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിക്കും കുറാറെ ചേർക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു വിറയൽ കാണാം അതിനുശേഷം പേശി സ്തംഭിക്കുന്നതായും കാണാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇൻവിട്രോ യിൽ കാണാൻ സാധിക്കും ഇതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ള ട്രാക്കേഴ്സ് ആണ് അതിനെ സംബന്ധിച്ച പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറാം ഇതെല്ലാം വളരെ വ്യക്തമായി കാണാനും വിലയിരുത്താനും സാധിക്കും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇതെല്ലാം ഒരു കാന്റിലിവറിനു മുകളിൽ ചെയ്യണമെന്നതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അത് ചെയ്യാനായി ഞങ്ങൾക്ക് ആവശ്യം ആയിരുന്നത് ഒരു പൊതുവായ മീഡിയവും മറ്റൊരു പ്ലേറ്റിംഗ് നിയമവും ആയിരുന്നു പ്ലേറ്റിംഗ് നിയമം ഇതായിരുന്നു ആദ്യം പേശികളെ പ്ലേറ്റ് ചെയ്യുക അതിനുശേഷം ഒന്നു മുതൽ രണ്ട് മണിക്കൂർ വരെ കാത്തിരിക്കുക പിന്നീട് മോട്ടോർ ന്യൂറോൺ ചേർക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മോട്ടോർ ന്യൂറോണിന്റെ ഉറവിടം എലി ഭ്രൂണത്തിന്റെ E14 വെൻട്രൽ ഹോൺ ആണെന്നും അസ്ഥി പേശികൾ നിങ്ങൾ ശേഖരിക്കുന്നത് E 18 റാറ്റ് ഫീറ്റസിൽ നിന്ന് ആണെന്നും എൻറെ അറിവിൽ പേശികൾക്കു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല ഇതിൽ ന്യൂറോൺ യഥാർത്ഥത്തിൽ സമന്വയിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇനിയും സമയം ആവശ്യമായി വന്നേക്കാം കാരണം ഇത് പ്രവർത്തിക്കാൻ എളുപ്പമുള്ള ഒരു സംവിധാനമല്ല എന്നാൽ വർഷങ്ങളായി ആളുകൾ പിന്തുടർന്നു വന്ന പരമ്പരാഗത കൾച്ചർ രീതികളുടെ മുഖച്ഛായ തന്നെ വരും വർഷങ്ങളിൽ മാറ്റിയേക്കാവുന്ന ചില സുവ്യക്തമായ സംവിധാനങ്ങൾ ആണിവ ആധുനിക സാങ്കേതികവിദ്യ ആണിവ നമ്മൾ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ് സെൽ കൾച്ചർ ഇനി ജീവ ശാസ്ത്രജ്ഞന്റെ മാത്രം പ്രാദേശിക ആധിപത്യം അല്ല എഞ്ചിനീയർമാർ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ കെമിക്കൽ എഞ്ചിനീയർമാർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ഡിസൈനർമാർ ബയോമെഡിക്കൽ ശാസ്ത്രജ്ഞർ ബയോളജിസ്റ്റുകൾ ഭൌതികശാസ്ത്രജ്ഞർ രസതന്ത്രജ്ഞർ എന്നിവരുടെ ഒരു സമഗ്ര യാത്രയാണിത് അതിനാൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് സെൽ പാറ്റേണിംഗിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം വിവിധ തരത്തിലുള്ള തിൻ ലെയർ സാങ്കേതികവിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം അത്തരം ഘടനകളിലേക്ക് ഇലക്ട്രോഡിനെ സംയോജിപ്പിക്കാൻ ഉള്ള മറ്റൊരു മേഖല ആണ് തിൻ ലെയർ സാങ്കേതികവിദ്യ അപ്പോൾ ഈ സമീപനം അനുസരിച്ച് ഉദാഹരണത്തിന് കാന്റിലിവറിൽ ആണെന്നിരിക്കട്ടെ എംബഡഡ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ എംബഡഡ് ഇലക്ട്രോഡ് സംവിധാനം ഉള്ള കാന്റിലിവർ നിങ്ങളുടെ പക്കലുണ്ട് എന്നിരിക്കട്ടെ അതൊന്നും അത്ര എളുപ്പമുള്ള പണികൾ അല്ല നിങ്ങൾ ഇവയെല്ലാം ഒരു മൈക്രോൺ തലത്തിൽ ആണ് ചെയ്യുന്നത് ഇതിനെല്ലാം ഇനിയും കുറച്ചു സമയം എടുക്കും സാങ്കേതികവിദ്യകൾ ഉണ്ട് എന്നാൽ നിങ്ങൾക്കറിയാമോ ഇവയെല്ലാം യഥാർത്ഥത്തിൽ സംഭവ്യമാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഈ ഭാഗത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ലഭ്യമല്ലാത്ത ചില ടെക്നോളജി കളെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇത് എല്ലാം വിദൂരഭാവിയിലെ സാങ്കേതിക വിദ്യകളാണ് എന്നാൽ ഈ സാങ്കേതിക വിദ്യകളാണ് നമ്മളെ വരും ഭാവിയിൽ മുന്നോട്ടു നയിക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് എ എൽ എസ് അഥവാ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസിനായി ഒരു സംവിധാനം പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു മോട്ടോർ ന്യൂറോണിന് പേശികളുമായി ആശയവിനിമയം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണിത് കാരണം അവ നശിച്ചുപോകുന്നു അത്തരമൊരു സംവിധാനം നിങ്ങൾക്ക് എങ്ങിനെ സൃഷ്ടിക്കാൻ സാധിക്കും പാർക്കിൻസൺ രോഗത്തെക്കുറിച്ച് പഠിക്കാനും ഈ സംവിധാനം ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് 3 ലെയറുകൾ ആവശ്യമാണ് സബ്സ്റ്റാന്റിയ നിഗ്ര യിൽ നിന്ന് വരുന്ന ഒരു മോട്ടോർ ന്യൂറോൺ സുഷുമ്നാ നാഡിയിലെ ഒരു മോട്ടോർ ന്യൂറോൺ പിന്നെ പേശിയും ഇവിടെ ഒരു സിഗ്നൽ അയക്കപ്പെടുന്നില്ല എന്നിരിക്കട്ടെ സബ്സ്റ്റാന്റിയ നിഗ്ര ന്യൂറോൺ സിഗ്നൽ അയയ്ക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഒരാൾക്ക് പാർക്കിൻസൺ അസുഖത്തെക്കുറിച്ച് ഒരു ഡിഷിലെ മോഡൽ ഉപയോഗിച്ച് എങ്ങിനെ പഠിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സെൽ പാറ്റേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത്തരമൊരു സർക്യൂട്ട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് അൽഷിമേഴ്സിനെ Alzheimer's കുറിച്ച് പഠിക്കാം ചെറിയ മൊഡ്യൂളുകളിലൊന്നിൽ ഞാൻ മൈക്രോ ചാനൽ സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിക്കാം ഏക ന്യൂറോൺ മുതൽ ഹിപ്പോകാമ്പസുമായുള്ള ഏക ന്യൂറോൺ ആശയവിനിമയം വരെ പഠിക്കാൻ ഈ മൈക്രോ ചാനൽ സാങ്കേതികവിദ്യ എത്രത്തോളം പ്രയോജനകരമാകും എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഹിപ്പോ കാമ്പൽ ന്യൂറോണുകൾ പരസ്പരം ആശയ വിനിമയം നടത്തുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സിഗ്നലുകളെ കുറിച്ച് ഉള്ള നമ്മുടെ ഗ്രാഹ്യത്തിലേക്ക് അത് ഒരുപാട് വെളിച്ചം വീശും ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഈ സീരീസിലെ അവസാന ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ എക്സൈറ്റബിലിറ്റി യെക്കുറിച്ചും അത് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചും സംസാരിക്കാം